കീവേഡുകൾ വേനൽ അവധിക്കാലം കമല ദാസ് ക്ലോസ് റീഡിങ് ഹലോ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഞാൻ ഈ പ്രഭാഷണത്തിന് കമലാ ദാസിന്റെ വേനൽ അവധിക്കാലത്ത് എന്നതിലെ ക്ലോസ്ഡ് റീഡിങ് എന്ന് പേരിട്ടു ഒരു സാഹിത്യ പുസ്തകവുമായി എങ്ങനെ ക്ലോസ് റീഡിങ് നടത്താമെന്നതിനുള്ള ഒരു ദ്രുത മാർഗ്ഗനിർദ്ദേശം നൽകുക എന്നതാണ് തുടക്കത്തിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് അതിനാൽ ക്ലോസ്ഡ് റീഡിങ്ൽ എങ്ങനെ കൃത്യമായി മുന്നോട്ടുപോകാം എന്നതിനെക്കുറിച്ചുള്ള ചില സൂചനകളോ മാർഗ്ഗനിർദ്ദേശങ്ങളോ നൽകിക്കൊണ്ട് ഞാൻ ആരംഭിക്കാം ക്ലോസ് റീഡിങ്ൽ നിങ്ങളുടെ ശ്രദ്ധ ഒരു നിർദ്ദിഷ്ട കഥാംശത്തിൽ ആകാം കൂടാതെ ഈ നിർദ്ദിഷ്ട ഭാഗം പാഠത്തെ മൊത്തത്തിൽ എങ്ങനെ ബന്ധപ്പെടുത്തുന്നുവെന്ന് നോക്കാം അതിനാൽ പ്രത്യേക ശ്രദ്ധ ഒരു പ്രത്യേക ഭാഗത്തിലോ ഒരു പ്രത്യേക ഭാഗങ്ങളിലോ ആകാം നമുക്ക് മുഴുവൻ വാചകവും വളരെ സൂക്ഷ്മമായി നോക്കാനാകും പക്ഷേ അത് സാധാരണയായി ചെയ്യാറില്ല ഒരു സാഹിത്യ സൃഷ്ടിയുടെ സുപ്രധാന സവിശേഷതകൾ നോക്കുക എന്നതാണ് ക്ലോസ് റീഡിങ്ന്റ്റെ ലക്ഷ്യം ഗണ്യമായ സവിശേഷതകളിൽ വാചാടോപവും ഘടനാപരമായ വശങ്ങളും ഉൾപ്പെടുത്താം കൂടാതെ ഇതിന് സാംസ്കാരിക പരാമർശങ്ങളും പരാമർശിക്കാം ഈ ഘടകങ്ങളെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ക്ലോസ് റീഡിങ് പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് നോക്കാവുന്നതാണ് ഈ നിരീക്ഷണങ്ങൾ നടത്തുക ഈ വിശദാംശങ്ങൾ ഉണ്ടാക്കുക ഈ വിശദാംശങ്ങളെല്ലാം ശേഖരിക്കുക ക്ലോസ് റീഡിങ് പ്രക്രിയയുടെ ആദ്യപടിയാണ് അതിനാൽ ഒരാൾക്ക് ക്ലോസ് റീഡിങ് പ്രക്രിയയിൽ തൽപര്യം ഉള്ളതും പ്രധാനപ്പെട്ടതും നിർദ്ദിഷ്ടവുമായ എല്ലാ സവിശേഷതകളും ശേഖരിക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഒരാൾക്ക് ഘടനാപരമായ വശങ്ങൾ എടുക്കാൻ കഴിയും ഉദാഹരണത്തിന് എങ്ങനെയാണ് പ്ലോട്ടിംഗ് നടത്തുന്നത് അല്ലെങ്കിൽ ഒരു പ്രത്യേക സാംസ്കാരിക പരിപാടി ഒരു ചെറുകഥയിൽ എങ്ങനെയാണ് കൃത്യമായി പരാമർശിക്കുന്നത് തുടങ്ങിയവ ക്ലോസ് റീഡിങ്ൽ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത സവിശേഷതകളെ സംബന്ധിച്ചിടത്തോളം വൈരുദ്ധ്യവും സമാന്തരങ്ങളും നോക്കാം ഞാൻ പറഞ്ഞതുപോലെ പ്രത്യേക ചരിത്ര പരാമർശങ്ങളും ഒരു പ്രത്യേക കഥാംശത്തിൽ സൂക്ഷ്മമായി പഠിക്കാം ക്ലോസ് റീഡിംഗ് എന്നത് കേവലം വിവരശേഖരണം ഘടനയുടെ എലെമെന്റുകൾ അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ എലെമെന്റുകൾ അല്ലെങ്കിൽ ചരിത്രം അല്ലെങ്കിൽ വാചാടോപം എന്നിവയുമായി ബന്ധപ്പെട്ട ഡാറ്റ ഉൾപ്പെടുന്നില്ല അതിൽ ഒരു വ്യാഖ്യാനം ഉൾപ്പെടുന്നു നിരീക്ഷണങ്ങളുടെ ആഴത്തിലുള്ള വ്യാഖ്യാനം ഈ നിരീക്ഷണങ്ങളിൽ എല്ലാ വിശദാംശങ്ങളും പ്രത്യേകതകളും താരതമ്യങ്ങളും വൈരുദ്ധ്യങ്ങളും ഉൾപ്പെടുന്നു അതിനാൽ നിങ്ങൾ ഈ വിശദാംശങ്ങളും പ്രത്യേകതകളും ശേഖരിച്ചുകഴിഞ്ഞാൽ അവ വ്യാഖ്യാനിക്കേണ്ടതുണ്ട് നിങ്ങളുടെ മനസ്സ് പ്രയോഗിക്കുകയും നിങ്ങളുടെ യുക്തി പ്രയോഗിക്കുകയും ടെക്സ്റ്റിന്റെ വലിയ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ അവ എന്താണ് നിർദ്ദേശിക്കുന്നതെന്ന് കാണുകയും ചെയ്യുക ഇൻഡക്റ്റീവ് റീസണിംഗ് പോലെ ക്ലോസ് റീഡിംഗിന് ശ്രദ്ധാപൂർവ്വം ഡാറ്റയും നിങ്ങളുടെ നിരീക്ഷണങ്ങളും ശേഖരിക്കേണ്ടതുണ്ട് കൂടാതെ ഈ ഡാറ്റ എന്തിലേക്ക് ചേർക്കുന്നു എന്നതിനെക്കുറിച്ച് ശ്രദ്ധാപൂർവ്വം ചിന്തിക്കേണ്ടതുണ്ട് അതിനാൽ വിവരങ്ങൾ ശേഖരിച്ചുകഴിഞ്ഞാൽ നമ്മൾ അവ പ്രോസസ്സ് ചെയ്യേണ്ടതുണ്ട് ഇൻഡക്റ്റീവ് റീസണിംഗ്ന്റെ അർത്ഥമെന്താണ് നിർദ്ദിഷ്ട വിവരങ്ങളിൽ നിന്ന് നിർദ്ദിഷ്ട വിശദാംശങ്ങളിൽ നിന്ന് വിശാലമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിലേക്കും വിശാലമായ ആശയങ്ങൾ കൊണ്ടുവരുന്നതിലേക്കും സാമാന്യവൽക്കരണത്തിലേക്കും നമ്മൾ നീങ്ങുന്നു അതിനാൽ ഒരു പ്രത്യേക കലാസൃഷ്ടിയെക്കുറിച്ച് ചില അനുമാനങ്ങൾ ഉണ്ടാക്കുന്നതിന് ക്ലോസ് റീഡിങ് നിർണായകമാണ് ഇപ്പോൾ ക്ലോസ് റീഡിങ്ങിന്റെ കാര്യത്തിൽ ഏറ്റവും നല്ല മാർഗം ഏതാണ് ദയവായി ഒരു പെൻസിൽ എടുക്കുകയും ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ തന്നെ അത് വ്യാഖ്യാനിക്കാൻ തുടങ്ങുകയും ചെയ്യുക വ്യാഖ്യാനിക്കുന്നതിലൂടെ നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് വ്യാഖ്യാനിക്കുന്നത് അർത്ഥമാക്കുന്നത് കീ വാക്കുകളെയും ശൈലികളെയും അണ്ടർലൈൻ ചെയ്യുക അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുക എന്നാണ് അതിനാൽ നിങ്ങൾ ഒരു എക്സ്ട്രാക്റ്റിൽ വരുന്ന രസകരമായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ അടയാളപ്പെടുത്തുക കാരണം ആ പ്രത്യേക ഭാഗത്തെക്കുറിച്ച് വലിയ അഭിപ്രായങ്ങളോ ആശയങ്ങളോ രൂപപ്പെടുത്തുന്നതിനായി നിങ്ങൾ പ്രവർത്തിക്കുന്ന അസംസ്കൃത വസ്തുക്കളായിരിക്കും അവ തുടർന്ന് നിങ്ങൾക്ക് ആ വിവരങ്ങളുടെ കൂട്ടത്തെ വലിയ ടെക്സ്റ്റിലേക്ക് മൊത്തത്തിൽ ബന്ധിപ്പിക്കാൻ കഴിയും നിങ്ങൾക്ക് അത് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അത് പൊതു സമൂഹത്തിൽ തന്നെ സ്ഥാപിക്കലാണ് നിങ്ങൾക്ക് താൽപ്പര്യമുള്ളതോ പ്രധാനപ്പെട്ടതോ ആശ്ചര്യപെടുതുന്നതോ അല്ലെങ്കിൽ നിങ്ങളെ ചോദ്യം ചെയ്യുന്നതോ ആയ എന്തെങ്കിലും പസിലുകൾ വ്യാഖ്യാനിക്കാൻ കഴിയും ചില സംഭവങ്ങളോടുള്ള ചില പ്രതികരണങ്ങളോ ചില അഭിപ്രായങ്ങളോടുള്ള പ്രതികരണങ്ങളോ മാർജിനുകളിൽ നമുക്ക് രേഖപ്പെടുത്താം നമ്മൾ അടുത്തറിയുന്ന ആ പ്രത്യേക ഭാഗവും ആ ഭാഗം സംഭവിക്കുന്ന മുഴുവൻ വാചകവും വിലയിരുത്തുമ്പോൾ സഹായകരമാകും അത്തരം ഒരു ക്ലോസ് റീഡിംഗ് പ്രക്രിയ നമ്മളെ ടെക്സ്റ്റ് വരികളിലേക്ക് ശരിക്കും ശ്രദ്ധ ചെലുത്തുന്നു നമ്മളും ഒരു എഴുത്തുകാരനെ പോലെ ചിന്തിക്കാൻ തുടങ്ങി നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു രചയിതാവിനെപ്പോലെ ചിന്തിക്കാൻ തുടങ്ങുന്നത് എന്നത് ചില അഭിപ്രായങ്ങൾ പറയാൻ ഒരു എഴുത്തുകാരന്റെ മനസ്സിലുള്ള എല്ലാ തെളിവുകളെയും കുറിച്ച് ചിന്തിക്കുക എന്നതാണ് അതിനാൽ ഒരു രചയിതാവിനെപ്പോലെ അടിസ്ഥാനം ലഭിക്കാൻ നമ്മൾ ട്രാക്കുകൾ ഉണ്ടാക്കുന്നു ഒരു വാചകത്തിലെ നിർദ്ദിഷ്ട ഭാഗത്തിൽ ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിന് രചയിതാവ് കൊണ്ടുവന്ന തെളിവുകളോ ഡാറ്റയോ നിങ്ങൾക്കറിയാം നിങ്ങൾ ഒരു രചയിതാവിനെപ്പോലെ ഒരിക്കൽ ചിന്തിച്ചാൽ നിങ്ങൾ ഒരു നല്ല നിരൂപക എഴുത്തുകാരനെപ്പോലെ ചിന്തിക്കുമെന്നും സൂചിപ്പിക്കുന്നു കാരണം നിങ്ങൾ എല്ലായ്പ്പോഴും എഴുത്ത് പ്രക്രിയയെക്കുറിച്ചും ചിന്തിക്കുന്നു കാരണം നിങ്ങൾ എഴുതാൻ തുടങ്ങുമ്പോൾ എന്റെ മുൻ പ്രഭാഷണങ്ങളിൽ ഒന്ന് ഞാൻ പരാമർശിച്ചതുപോലെ നമ്മളുടെ നിലപാട് തെളിയിക്കാൻ നമ്മൾ ന്യായീകരണങ്ങളോ തെളിവുകളോ കൊണ്ടുവരേണ്ടതുണ്ട് അതിനാൽ നമ്മളുടെ വാചകത്തിലെ ചില അവകാശവാദങ്ങൾക്കോ വാദങ്ങൾക്കോ പിന്നിലുള്ള തെളിവുകളെക്കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട് മറ്റൊരു പ്രധാന കാര്യം ഞാൻ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒന്ന് ടെക്സ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ച കാര്യങ്ങളുടെ പാറ്റേണുകൾ നോക്കുക അല്ലെങ്കിൽ ക്ലോസ് റീഡിങ്ങിനായി നിങ്ങൾ തിരഞ്ഞെടുത്ത പ്രത്യേക ഭാഗം ആവർത്തനങ്ങൾക്കായി നോക്കുക ഇത് വളരെ രസകരമാണ് ഒരു പ്രത്യേക വാചകത്തിലോ ചെറുകഥയിലോ നോവലിലോ ഒരേ നിറം ആവർത്തിക്കപ്പെടുകയോ പരാമർശിക്കുകയോ ചെയ്യുന്നുണ്ടോ ഒരു വാചകത്തിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ വിപരീത ഘടകങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ ഉദാഹരണത്തിന് കഥാകാരൻ ഒരു പ്രത്യേക കഥാപാത്രത്തെക്കുറിച്ച് ഒരു അവകാശവാദം ഉന്നയിച്ചേക്കാം നിങ്ങൾക്കറിയാം കഥാകാരന്റെ ഈ അഭിപ്രായം വാങ്ങിയ വായനക്കാരൻ നോവലിന്റെയോ ചെറുകഥയുടെയോ ഒരു കഥാപാത്രത്തെക്കുറിച്ചുള്ള ആ പ്രത്യേക ധാരണയെ ന്യായീകരിക്കാൻ നോക്കും അതിനുപകരം നമുക്ക് തികച്ചും വിപരീതമായ ഒരു അഭിപ്രായം ലഭിച്ചാൽ തീർച്ചയായും നമ്മൾ ആശ്ചര്യപ്പെടും അതിനാൽ ആ കഥാപാത്രം അവതരിപ്പിക്കുന്നതിനുപകരം കഥാകാരൻ താൻ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞതിന് പകരം അവൻ അവിടെ മറ്റെന്തെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വൈരുദ്ധ്യമുണ്ട് സംസാരിക്കാൻ സമാനതയില്ല കൂടാതെ സംഭവങ്ങളുടെയോ പെരുമാറ്റത്തിന്റെയോ സ്വഭാവസവിശേഷതകളുടേയോ സമാനതകൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അതിനാൽ നിങ്ങളുടെ വിശകലന പ്രക്രിയയിൽ ഒരു വലിയ ക്ലെയിം അല്ലെങ്കിൽ പ്രബന്ധം ഉണ്ടാക്കുന്നതിനുള്ള തെളിവുകൾ ഇവയെല്ലാം ആയോധനത്തിന് നിങ്ങളെ സഹായിക്കും നിങ്ങൾ വായിച്ചുകഴിയുമ്പോൾ ചെയ്യേണ്ട മറ്റൊരു പ്രധാന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച പാറ്റേണുകളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുക എന്നതാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒരു അവസാനമല്ല ഇത് പ്രക്രിയയുടെ തുടക്കം മാത്രമാണ് കാരണം ഒരു കഥയിലോ നോവലിലോ സംഭവിക്കുന്ന അല്ലെങ്കിൽ ദൃശ്യമാകുന്ന രസകരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നു നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ചില ഉത്തരങ്ങൾ കണ്ടെത്തുമ്പോൾ മാത്രം നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾ ഒരു പ്രത്യേക ചെറുകഥയെക്കുറിച്ചോ ഒരു ചെറുകഥയിലെ ഒരു പ്രത്യേക കഥാപാത്രത്തെക്കുറിച്ചോ പൂർണ്ണമായ അഭിപ്രായങ്ങൾ പൂർണ്ണമായ വാദങ്ങൾ രൂപപ്പെടുത്തും അതിനാൽ എങ്ങനെ എന്തുകൊണ്ട് ഒരു പ്രത്യേക കഥാപാത്രം അവൻ അല്ലെങ്കിൽ അവൾ എന്ത് കൊണ്ടാണ് ആ രീതിയിൽ പെരുമാറുന്നത് ഒരു പ്രത്യേക കാര്യം എന്തുകൊണ്ട് ആ രീതിയിൽ സംഭവിച്ചു അത് എന്തുകൊണ്ട് മറ്റൊരു രീതിയിൽ ആയില്ല തുടങ്ങിയ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കേണ്ടതുണ്ട് അതിനാൽ എല്ലായ്പ്പോഴും കഥാപാത്രങ്ങളുടെ പെരുമാറ്റത്തിന് പിന്നിലെ യുക്തി അല്ലെങ്കിൽ പ്രചോദനങ്ങൾക്കായി നോക്കുക നിങ്ങൾ തെളിവുകൾ ശേഖരിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ അത് ശ്രദ്ധിക്കുകയും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ശേഖരിച്ച തെളിവുകളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും നിങ്ങൾ ശേഖരിച്ച തെളിവുകളെക്കുറിച്ച് വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുക കൂടാതെ ഏത് വ്യാഖ്യാനമാണ് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ വ്യാഖ്യാനമെന്ന് നോക്കുക നിങ്ങൾ കൊണ്ടുവരുന്ന വിവിധ വിധികളിലോ വിശകലനങ്ങളിലോ ഏറ്റവും മികച്ച വ്യാഖ്യാനം ഏതാണ് കൂടുതൽ പൂർണ്ണമായ തെളിവ് ഏതെന്ന് കാണുക സാഹിത്യ വിമർശന പ്രക്രിയയ്ക്കും ഉപന്യാസ രചന പ്രക്രിയയ്ക്കും വാസ്തവത്തിൽ മുഴുവൻ അക്കാദമിക് എന്റർപ്രൈസസിനും ക്ലോസ് റീഡിങ് പ്രധാനമാണ് ചില കഥാപാത്രങ്ങളെക്കുറിച്ചും വാചകങ്ങളെയും നോവലുകളെയും സാഹിത്യ രചനകളെയും കുറിച്ച് നമ്മൾ എങ്ങനെയാണ് അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുന്നത് എന്നതിനുള്ള ഒരു ജാലകം ഇത് നൽകുന്നു അതിനാൽ ക്ലോസ് റീഡിംഗ് എന്നത് ശില്പശാലയാണ് അതിൽ ആശയങ്ങൾ തരംതിരിക്കുകയും കണ്ടെത്തുകയും രൂപപ്പെടുത്തുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഞാൻ കമലാ ദാസിന്റെ സമ്മർ വെക്കേഷനിൽ നിന്നുള്ള ഒരു പ്രത്യേക ഭാഗത്തേക്ക് ക്ലോസ്ഡ് റീഡിങ്നേക്കുറിച്ചുള്ള ഈ ആശയങ്ങൾ പ്രയോഗിക്കാനും ആ പ്രക്രിയയിൽ നിന്ന് പുറത്തുവരുന്ന വിവിധ വ്യാഖ്യാനങ്ങൾ കാണാനും ആഗ്രഹിക്കുന്നു അതിനാൽ ഞാൻ കഥയുടെ തുടക്കത്തിൽ ഒരു ഹ്രസ്വ ഭാഗം എടുക്കാൻ പോകുന്നു കൂടാതെ ഈ പ്രത്യേക കഥാംശത്തിൽനിന്ന് മറ്റ് ഭാഗങ്ങളിലേക്കും മറ്റ് സംഭവങ്ങളിലേക്കും കഥയുടെ ബാക്കി ഭാഗങ്ങളിലേക്കും ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു അതിനാൽ ഒരു കാര്യം മറ്റൊന്നിലേക്ക് എങ്ങനെ നയിക്കുന്നുവെന്നും ഈ പോയിന്റുകളെല്ലാം എങ്ങനെ പ്രമേയപരമായി ബന്ധിപ്പിക്കാമെന്നും നമുക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയും കൂടാതെ ഈ ഫിക്ഷനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം അതിനാൽ ഒരു പ്രത്യേക ഭാഗം ക്ലോസ് റീഡിങ് ചെയ്യുന്നത് ഒരു ഒറ്റപ്പെട്ട പ്രക്രിയയല്ല ഞാൻ പറഞ്ഞതുപോലെ വിവിധ കാര്യങ്ങളുമായും വിവിധ ആശയങ്ങളുമായും ഉള്ള ബന്ധങ്ങളിലൂടെയെല്ലാം ഈ പ്രത്യേക ഫിക്ഷൻ സൃഷ്ടിയുടെ തത്ത്വചിന്തയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും അതിനാൽ എനിക്ക് താൽപ്പര്യമുള്ള ഭാഗം ഞാൻ വായിക്കാൻ പോകുന്നു ഇത് ആരംഭിക്കാൻ വളരെ ലളിതമാണെന്ന് തോന്നുന്നു എന്നാൽ ഈ ഭാഗത്തുനിന്ന് നിങ്ങൾ ചില വിശദാംശങ്ങൾ അഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ വിവിധ സംഭവങ്ങളുമായുള്ള ബന്ധങ്ങൾ കാണാൻ കഴിയും കഥയിലെ വിഷയം ഇതാണ് ഈ കഥയിലെ രണ്ടു കഥാപാത്രങ്ങളായ അമ്മുവും അമ്മുവിൻറെ മുത്തശ്ശിയും വീടിന്റെ പരിസരത്തു നടക്കുന്നു അവർ നടക്കുമ്പോൾ മുത്തശ്ശി നെയ്തെടുത്ത പോലെയുള്ള ഉണങ്ങിയ ഇല ശ്രദ്ധിക്കുകയും അവർ അത് എടുക്കുകയും ഈ ഇല എനിക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ വളരെ ഉപയോഗപ്രദമാകുമെന്ന് തോന്നുന്നു ഞാൻ അത് സൂക്ഷിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു അങ്ങനെ രണ്ട് കഥാപാത്രങ്ങൾ തിരികെ വീട്ടിലേക്ക് നടന്നു മുത്തശ്ശി ഉണങ്ങിയ ഇല മുൻവശത്തെ വരാന്തയിലേക്ക് എറിഞ്ഞിട്ട് കുളിക്കുന്ന കുളത്തിലേക്ക് പോയി ഒരു തൂവാലയും ഒരു സോപ്പ് കഷണത്തോടെയുള്ള ചുവന്ന സോപ്പ് പെട്ടിയും കുളത്തിലേക്ക് പോകുന്ന പടികളിൽ കിടക്കുന്നു ഈ പ്രത്യേക വാക്യങ്ങളിൽ ഞാൻ ഇവിടെ ശ്രദ്ധിക്കുന്നു ഉണങ്ങിയ ഇല എറിയുന്ന ഈ പ്രവർത്തനത്തിൽ എനിക്ക് താൽപ്പര്യമുണ്ട് അവൾ അത് വരാന്തയുടെ തറയിൽ ശ്രദ്ധാപൂർവ്വം സ്ഥാപിക്കുന്നില്ല അവൾ അത് എറിയുന്നു അത് എനിക്ക് രസകരമാണെന്ന് തോന്നുന്നു അവൾ ഇല ശ്രദ്ധാപൂർവ്വം തറയിൽ സൂക്ഷിക്കുന്നില്ല എന്ന വസ്തുത ഞാൻ നേരത്തെ പരാമർശിച്ച പ്രസ്താവനയാണിത് ചുരണ്ടിയ നാളികേരത്തിൽ നിന്ന് എണ്ണ ഉണ്ടാക്കുമ്പോൾ ഒരു അരിപ്പയായി എനിക്ക് ഈ ഇല ഉപയോഗിക്കാമെന്ന് അവൾ പറയുന്നു അതിനാൽ ഇത് ഒരു പ്രത്യേക സംഭവം നമ്മോട് പറയുന്നത് ഈ പ്രത്യേക വിവരങ്ങൾ നമ്മോട് പറയുന്നത് അവർ നിരന്തരം വളരെ ഉൽപാദനക്ഷമതയുള്ള വ്യക്തിയാണെന്ന് കഥയിലെ മുത്തശ്ശിയുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവർ നിരന്തരം കാര്യങ്ങൾ ചെയ്യുന്നു അവർ സാധനങ്ങൾ എടുക്കും അവർ എണ്ണ വിളക്കുകൾക്കായി തിരി ഉണ്ടാക്കും ഇവിടെ അവർ തെങ്ങിൻ കൊപ്രകൾ ഉപയോഗിച്ച് എന്താണ് നിർമ്മിക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്നു അതിനാൽ അവർക്ക് ചുറ്റും ശ്രദ്ധിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും അവൾക്ക് ഒരു ഉപയോഗമുണ്ട് പക്ഷേ ഈ ഇല അവൾ ശ്രദ്ധാപൂർവ്വം സംരക്ഷിക്കുന്നില്ല ഈ ഇല ഒരു വിലയേറിയ ചരക്കല്ലെന്ന് ഇത് നമ്മോട് പറയുന്നു മുത്തശ്ശിയുടെ വീട്ടിലെ ഉണങ്ങിയ നെയ്തെടുത്ത ഇലകൾ നിസ്സാരമായിരിക്കാം ഈ ഇലകൾ എളുപ്പത്തിൽ ലഭ്യമാണ് കാരണം വീടിന് ചുറ്റും മരങ്ങളുണ്ട് വീടിന് ചുറ്റും ധാരാളം മരങ്ങളെക്കുറിച്ച് പരാമർശങ്ങളുണ്ട് ഇത് എളുപ്പത്തിൽ ലഭ്യമായതിനാൽ ഇത് എളുപ്പത്തിൽ വിതരണം ചെയ്യാവുന്നതുമാണ് ഇല നഷ്ടപ്പെട്ടാൽ മുത്തശ്ശി ഭയങ്കര വിഷമത്തിലാകില്ല അതിനാൽ എളുപ്പത്തിൽ ലഭ്യമാകുന്ന എന്തെങ്കിലും ശ്രദ്ധാപൂർവ്വം സംരക്ഷിക്കപ്പെടുന്നില്ല എന്നതാണ് ഇവിടെയുള്ള ആശയം ഈ മനോഭാവം നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ജോലി ആവശ്യപ്പെട്ട് പലപ്പോഴും വീട്ടിൽ വരാറുള്ള നാണി അമ്മയോടുള്ള മുത്തശ്ശിയുടെ പെരുമാറ്റവുമായി ഇത് ബന്ധമുണ്ട് അരി ഇടിക്കുന്ന ജോലി പൂർത്തിയാക്കാൻ നാണി അമ്മയെ എളുപ്പത്തിൽ ലഭ്യമാണ് അവളോടുള്ള മുത്തശ്ശിയുടെ മനോഭാവം ബഹുമാനമില്ലാത്തതും അലോസരപ്പെടുത്തുന്നതും ഒക്കെയാണ് ഞാൻ മുത്തശ്ശിയുടെ പെരുമാറ്റത്തിൽ ശ്രദ്ധിക്കുന്നു അവർ നാണി അമ്മയോട് സംസാരിക്കുന്ന അശ്രദ്ധമായ രീതി നാണി അമ്മയോട് പെരുമാറുന്ന അപമാനകരമായ രീതി കാരണം അവൾ പലപ്പോഴും വീട്ടിലേക്ക് വരുന്നതിനാൽ അരി ഇടിക്കാൻ ആവശ്യപ്പെടുന്നു അതിനാൽ അവൾക്ക് ആ ജോലിയിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം ലഭിക്കും എന്നത് വളരെ രസകരമാണ് നോക്കൂ വളരെ ലളിതമായ കാര്യം ഉണങ്ങിയ ഇലയുമായി ഒരു പ്രത്യേക രീതിയിൽ ബന്ധപ്പെട്ട വ്യക്തിയും ഈ ഫിക്ഷൻ സൃഷ്ടിയിലെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചും കഥാപാത്രങ്ങളെക്കുറിച്ചും ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കും ഇനി നമുക്ക് ആ കഥാംശത്തിൽതിരിച്ചെത്താം മുത്തശ്ശിയും ഈ കൊച്ചു പെൺകുട്ടിയും ആ കുളിമുറിയിലാണ് സോപ്പ് പെട്ടി കണ്ട മുത്തശ്ശി പറഞ്ഞു "ആ സോപ്പ് ഇവിടെ ഉപേക്ഷിച്ച കാര്യം ഞാൻ മറന്നു കാക്ക മോഷ്ടിക്കാത്തത് എന്റെ ഭാഗ്യമാണ് ഇത് ഇവിടെ വളരെ രസകരമായ ഒരു പ്രസ്താവനയാണ് കാരണം രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഞാൻ ഭാഗ്യവാനാണ് കാരണം കാക്ക അത് മോഷ്ടിച്ചില്ല എന്ന് പറയുന്നതാണ് ഒരു സോപ്പ് കൈവശം വയ്ക്കുന്നത് അൽപ്പം ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാകാം അല്ലെങ്കിൽ പൂർണ്ണമായും ഉപയോഗിക്കുന്നതിന് മുമ്പ് മുത്തശ്ശി ഈ ചരക്ക് നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാകാം രണ്ടാമത്തെ കാര്യം മോഷണം എന്ന ആശയമാണ് അതിനാൽ മുൻകൂട്ടി സൂചിപ്പിക്കുന്ന ഈ ഘടകം നമ്മൾ ഇവിടെ പരാമർശിക്കുന്നു ഒരു വാചകത്തിലോ പ്രവൃത്തിയിലോ പിന്നീട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്ന ഒരു സാഹിത്യ ഉപകരണമാണ് മുൻനിശ്ചയം അതിനാൽ ഇവിടെ മുൻനിഴലാക്കുന്നത് മോഷണത്തെക്കുറിച്ചാണ് കഥയിൽ അത് പിന്നീട് പിന്നീട് നാണി അമ്മ ചെയ്യുന്നു അതിനാൽ കാക്ക മോഷ്ടിക്കുന്നത് സോപ്പ് പെട്ടി മോഷ്ടിക്കുന്നത് സാധ്യമായ മറ്റൊരു ഗുരുതര മോഷണത്തിന്റെ സൂചനയാണ് നാണി അമ്മ പിന്നീട് കഥയിൽ ചെയ്യുന്നത് അങ്ങനെ വീണ്ടും മോഷ്ടിക്കുന്നതും എന്ന ആശയം ഞാൻ പറഞ്ഞതുപോലെ വടക്കിന്നിയിൽ നിന്നും മുത്തശ്ശിയുടെ വീടിന്റെ വടക്കൻ ഹാളിൽ നിന്നും പുളി മോഷ്ടിക്കുന്നത് ഓർമ്മപ്പെടുത്തുന്നു അതിനാൽ ഈ രണ്ട് ക്രിയേച്ചറുകൾ 'creatures തമ്മിൽ ഒരുതരം ബന്ധം ഇവിടെയുണ്ട് ഞാൻ ഒരു മിനിറ്റിനുള്ളിൽ അതിലേക് തിരിച്ചുവരും ആ കൊച്ചു പെൺകുട്ടി ചോദിക്കുന്നു എന്തുകൊണ്ടാണ് മുത്തശ്ശി കാക്കകൾ സോപ്പ് കഴിക്കുന്നത് ഇല്ല പക്ഷേ ഒരു കാക്ക അതിനെ നിറം കൊണ്ട് ആകർഷിക്കപ്പെട്ട് അത് എടുത്തു കൊണ്ട് പോയേക്കാം ഒരു പെൺകുട്ടിയുടെ ഭാഗത്തുനിന്നുള്ള വളരെ രസകരമായ ഒരു ചോദ്യമാണിത് നമുക്ക് ഓർമിക്കാൻ കഴിയുന്ന ഒരു നഗരത്തിൽ വളർന്ന പെൺകുട്ടി അവൾ കൊൽക്കത്തയിലെ സ്കൂളിൽ പോകുന്നു അതിനാൽ ഈ ചോദ്യം പെൺകുട്ടിയുടെ സന്ദർഭത്തെ സംബന്ധിച്ചിടത്തോളം ചെറുതായി ആശയക്കുഴപ്പത്തിലാക്കുന്നു ഇല്ലെന്ന് അവൾ പറയുന്നു കാക്ക നിറത്തിൽ ആകർഷിക്കപ്പെടാം അതിനാൽ അത് കൊണ്ട് പോയേക്കാം ഇത് അമ്മുവിന്റെ ഭാഗത്തെ പ്രതിഫലനമാണ് അവൾ ഇത് ഉച്ചരിക്കുന്നില്ല അവൾ ഇത് മുത്തശ്ശിയെക്കുറിച്ച് സംസാരിക്കുന്നില്ല മുത്തശ്ശിയുടെ സ്വഭാവത്തെക്കുറിച്ച് അവൾ ചില കാര്യങ്ങൾ ചിന്തിക്കുന്നു പ്രിയ മുത്തശ്ശി എന്ന് അവൾ പറയുന്നു അതിനാൽ അവൾക്ക് അവളോട് വളരെ ഇഷ്ടമാണ് അവളുടെ മാനസിക ഓർമ്മയിൽ പോലും നമുക്ക് അത് മനസ്സിലാക്കാനാകും അതിനാൽ അവളുടെ മൂത്ത മുത്തശ്ശിയെ അവൾക്ക് വളരെ ഇഷ്ടമാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു പ്രിയ മുത്തശ്ശിയേ ഞാൻ വിചാരിച്ചു അവൾ എത്ര നിഷ്കളങ്കയാണ് നൈവ് എന്നാൽ നിഷ്കളങ്കയാണ് "ഉപയോഗിച്ച സോപ്പ് കഷണം പക്ഷേ കാക്ക മോഷ്ടിക്കുമെന്ന് അവൾ കരുതി ഒരു ടൈൽ കഷണം പോലെ തോന്നിക്കുന്ന ഉപയോഗിച്ചലിഞ്ഞ ഒരു സോപ്പ് കഷണം അത് കൊണ്ടുപോകാൻ കാക്കയെ പ്രേരിപ്പിക്കാൻ സാധ്യതയുണ്ടോ " അതിനാൽ ഈ സോപ്പ് കഷ്ണം കൊണ്ടുപോകാൻ കാക്കയെ പ്രേരിപ്പിക്കുമെന്ന് അവളുടെ മുത്തശ്ശി പറയുമ്പോൾ അവൾ ആശ്ചര്യപ്പെടുന്നു കാരണം അത് അമ്മുവിന് ആകർഷകമായി തോന്നുന്നില്ല ഞാൻ പറഞ്ഞതുപോലെ ഈ ചോദ്യം കാക്കകൾ സോപ്പ് കഴിക്കുമോ അത് ചോദിക്കാൻ വളരെ നിഷ്കളങ്കമായ അജ്ഞതയുള്ള ചോദ്യമാണ് ഗ്രാമീണ ജീവിതരീതിയെക്കുറിച്ച് അവൾക്ക് അജ്ഞതയുണ്ടെന്ന് അവൾ നമ്മോട് പറയുന്നു അവൾക്ക് സ്വാഭാവിക വശങ്ങളെക്കുറിച്ച് തികച്ചും അജ്ഞതയുണ്ട് കാക്കകൾ സോപ്പ് കഴിക്കുമോ എന്ന് അവൾക്ക് ഉറപ്പില്ല കൂടാതെ നിഷ്കളങ്കയായ അമ്മു മറ്റ് പ്രദേശങ്ങളുമായി ബന്ധം പുലർത്തുന്നതിന് ഇത് എക്സ്ട്രാപോൾ ചെയ്യാവുന്നതാണ് അമ്മമാർ കുട്ടികളുമായി എങ്ങനെ ബന്ധപ്പെടുമെന്നതിനെക്കുറിച്ച് അവൾക്ക് അജ്ഞതയുള്ള വളരെ രസകരമായ ഒരു സംഭവത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഒരു അമ്മയുടെ അതിശയോക്തിപരമായ ശാസനകളെക്കുറിച്ച് അവൾക്ക് പൂർണ്ണമായും അറിയില്ലെങ്കിൽ അവളുടെ നിഷ്കളങ്കതയും അജ്ഞതയും ആ പ്രത്യേക രംഗത്തിലൂടെ കടന്നുവരുന്നു അതിനാൽ ഞാൻ സംസാരിക്കുന്ന രംഗമാണിത് നിങ്ങൾ ഈ രംഗം ഓർക്കുന്നുവെങ്കിൽ മുത്തശ്ശിയെ സന്ദർശിക്കാൻ എത്തിയ ഒരു കൂട്ടം ഗ്രാമീണ സ്ത്രീകൾ ഉണ്ട് നഗരത്തിലെ ഈ പെൺകുട്ടി അവിടെയുണ്ടെന്ന് അവർക്കറിയാം ഒരുപക്ഷേ അവർ പെൺകുട്ടിയെ സ്വാഗതം ചെയ്യാൻ വരുന്നു അവരെല്ലാവരും ഒരുമിച്ച് ഒരു ഗ്രൂപ്പിൽ ഇരിക്കുകയും ചാറ്റ് ചെയ്യുകയും സംഭാഷണം നടത്തുകയും ചെയ്യുന്നു അത് സംഭവിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ അടുത്തുള്ള കുട്ടി കരയാൻ തുടങ്ങുകയും ഒരുപക്ഷേ കുട്ടിക്ക് വിശക്കുന്നുണ്ടാവാം എന്ന് മുത്തശ്ശി പറയുകയും ചെയ്യുന്നു അമ്മ ഇല്ല എന്നു പറയുന്നു അവന്ന് ഭക്ഷണം കൊടുത്തതേയുള്ളൂ നിങ്ങൾക്കറിയാമോ അവൻ ബുദ്ധിമുട്ടിക്കുകണ് ഇത് അമ്മ പറഞ്ഞ ഉദ്ധരണിയാണ് റാസ്കൽ ഒരു നല്ല അടിക്ക് അർഹമാണെന്ന് അമ്മ പറയുന്നു കുട്ടിയെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നതിനായി ദേഷ്യത്തിൽ കണ്ണുരുട്ടുന്നു ഞാൻ നിന്നെ കൊല്ലും അവൾ പറഞ്ഞു നിങ്ങൾ കാത്തിരിക്കൂ ഈ ദിവസങ്ങളിലൊന്ന് ഞാൻ നിന്നെ ശരിക്കും കൊല്ലും അമ്മു അവൾ അതിശയോക്തി തിരിച്ചറിയുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യുന്നില്ല അതിനാൽ അവൾ ചെറുതായി പേടിച്ചു അവൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് നീങ്ങി മുത്തശ്ശിയോട് ഒരു മന്ത്രത്തിൽ ചോദിച്ചു അവൾ കുട്ടിയെ ശരിക്കും കൊല്ലുമോ അതിനാൽ അമ്മു ഇവിടെ എല്ലാം മുഖവിലയ്ക്കെടുക്കുന്നുവെന്നത് രസകരമാണ് അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ചില കാര്യങ്ങളിൽ അവൾ ശരിക്കും നിഷ്കളങ്കയാണ് മുത്തശ്ശിക്ക് അമ്മുവിന്റെ ചോദ്യം മനസ്സിലായില്ല അതിനാൽ അമ്മു ആവർത്തിക്കുന്നു അവൾ ആ കുട്ടിയെ കൊല്ലുമോ നീ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് മുത്തശ്ശി ചോദിക്കുന്നു കുട്ടിയുടെ അമ്മ മുത്തശ്ശിയും അമ്മുവിന്റെ ഉത്കണ്ഠ മനസ്സിലാക്കിയ ഉടൻ അവൾ പൊട്ടിച്ചിരിച്ചു ഇത് വളരെ ഹൃദയസ്പർശിയായ ഒരു രംഗമാണ് ഒരു തലത്തിൽ ഇത് വളരെ രസകരമാണ് കാരണം അമ്മയുടെ അതിശയോക്തിപരമായ വാക്കുകൾക്ക് പിന്നിലെ സത്യം അവൾക്ക് മനസ്സിലാകുന്നില്ല അമ്മ വെറുതെ ചിലത് ആസ്വദിക്കാൻ ശ്രമിക്കുന്നു മറ്റൊരു അർത്ഥത്തിൽ ഈ രംഗം വളരെ സ്പർശിക്കുന്നതാണെന്ന് അമ്മുവിന് മനസ്സിലായില്ല കാരണം അമ്മമാർ അവരുടെ കുട്ടികളോട് എങ്ങനെ പെരുമാറുമെന്നതിനെക്കുറിച്ച് അവൾക്ക് യാതൊരു സൂചനയുമില്ല അതിനാൽ ഈ അനുഭവത്തിന്റെ അഭാവമാണ് അവളുടെ ഒരു കൂട്ടം ചോദ്യങ്ങൾക്ക് കാരണം അതിനാൽ കുട്ടിയുമായി കളിക്കുമ്പോൾ അമ്മയുടെ അതിശയോക്തിപരമായ വാക്കുകളുടെ അനുഭവം ഇല്ല അമ്മുവിന് ലഭിക്കുന്ന ഒരു അമ്മയുടെ സ്നേഹത്തിന്റെ അഭാവം കാരണം ഈ വിവരങ്ങൾ ശരിക്കും ഞെട്ടിക്കുന്നതും ചലിക്കുന്നതുമാണ് തടിച്ച സ്ത്രീകൾ എന്നോട് ഭയാനകമായ ശബ്ദത്തിൽ ചോദിച്ചു 'അമ്മു എപ്പോഴെങ്കിലും സ്വന്തം കുട്ടികളെ കൊല്ലുമോ സ്വന്തം അമ്മയേക്കാൾ ഒരു കുട്ടിയെയും ആരും സ്നേഹിക്കില്ല അങ്ങനെ അമ്മുവിന്റെ ചോദ്യം മനസിലാക്കിയ സ്ത്രീകൾ ഭയന്നു അവൾ ഭയന്നു അമ്മു വിചാരിക്കും അവൾ തന്റെ കുട്ടിയെയും സ്വന്തം മക്കളെയും കൊന്നതാണെന്ന്ഒരു അമ്മയും അത് ചെയ്യില്ലെന്ന് അവൾ പറയുന്നു സ്വന്തം അമ്മയേക്കാൾ കൂടുതൽ ആരും കുട്ടിയെ സ്നേഹിക്കില്ല എന്നും പറയുന്നു നമുക്കെല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് അമ്മു ഈ ചോദ്യം ചോദിക്കുന്നതെന്നും കൂട്ടത്തിലുള്ള സ്ത്രീകളിൽ ഒരാൾ അമ്മുവിനെ പരാമർശിച്ചുകൊണ്ട് "പാവം കുട്ടി" എന്ന് പറയുന്നു "പാവം കുട്ടി അവൾക്ക് പരിചയമില്ലാത്തതിനാൽ അവൾക്ക് എങ്ങനെ അറിയാൻ കഴിയും അതിനാൽ അമ്മയുടെ സ്നേഹത്തിന്റെ അഭാവവും അത് മൂലമുണ്ടായ അജ്ഞതയും ഈ പ്രത്യേക രംഗത്തിലും ഈ ചോദ്യം ചോദിക്കുന്ന ഈ പ്രായമായ സ്ത്രീകളിലും ശക്തിപ്പെടുത്തുന്നു ഇപ്പോൾ ഇത് ആ പഴയ അജ്ഞതയിലേക്ക് ഞാൻ തിരിച്ചുപോകട്ടെ കാക്ക സോപ്പ് കഴിക്കുമോ എന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവൾ വെളിപ്പെടുത്തുന്ന അജ്ഞതയെയും നിഷ്കളങ്കതയെയും കുറിച്ച് ഞാൻ സംസാരിക്കുകയായിരുന്നു കാരണം അവൾ മുത്തശ്ശിയുടെ കാര്യത്തിൽ സംസാരിക്കുന്ന നിഷ്കളങ്കതയെക്കുറിച്ച് അത് നിങ്ങളോട് പറയുന്നു യഥാർത്ഥത്തിൽ അവളുടെ സ്വന്തം നിഷ്കളങ്കതയാണ് അവൾ അവിടെ വെളിപ്പെടുത്തുന്നത് ആ ചെറിയ കഥാംശത്തിൽ നമ്മൾ കാണുന്ന അമ്മുവിന്റെ ഈ ബോധം അമ്മുവിന്റെ ഉന്നതമായ മനോഭാവം വെളിപ്പെടുത്തുന്നു അവളുടെ നഗരജീവിതത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു മനോഭാവം മുത്തശ്ശിയുടെ സ്വഭാവവും ധാരണയും വിലയിരുത്തുമ്പോൾ അവൾ കുളിക്കുന്ന മുറിയിൽ ഒരു സോപ്പിന്റെ മോഷണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവൾ വളരെ നിന്ദ്യയാണെന്നും ഇത് പറയുന്നു ഇപ്പോൾ എനിക്ക് ആ കഥാംശത്തിൽ വീണ്ടും പോകാനും വീണ്ടും കുറച്ച് അടുത്ത് വായിക്കാനും ആഗ്രഹിക്കുന്നു ആ സോപ്പ് പെട്ടിയിലെ സോപ്പ് ഉപയോഗിച്ച സോപ്പ് ആണ് ഇത് ഉപയോഗത്താൽ തേഞ്ഞിരിക്കുന്നു ഇവ അവിടെയുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള രണ്ട് രസകരമായ സ്വഭാവ സവിശേഷതകളാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവ പുതിയതല്ല അവ ക്ഷീണിച്ചിരിക്കുന്നു അതിനാൽ ഇത് ഉപയോഗിക്കാതിരുന്നാൽ അത് പുതിയതായിരിക്കും ഞാൻ ഇവിടെ പറയാൻ ശ്രമിക്കുന്ന കാര്യം സോപ്പ് ഉപയോഗിച്ചു എന്നതാണ് സോപ്പ് അപൂർണ്ണമാണ് സോപ്പ് തേഞ്ഞുപോയി മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അത് പുതിയതല്ല എന്തുകൊണ്ടാണ് ഒരു കാക്ക പുതിയതല്ലാത്തതും ഉപയോഗിച്ചതും മോഷ്ടിക്കുന്നത് എന്ന് അമ്മു അത്ഭുതപ്പെടുന്നു കാക്കകളുടെ പെരുമാറ്റത്തിന് അവൾ ഇവിടെ മനുഷ്യ യുക്തി പ്രയോഗിക്കുന്നുവെന്നത് രസകരമാണ് എന്നിട്ടും കാക്ക മോഷ്ടിക്കുമെന്ന് അവൾ വിചാരിച്ചു അപൂർണ്ണമായ ഈ സോപ്പ് കഷണം ഒരു കാക്ക മോഷ്ടിക്കുമെന്ന് ഒരു മുത്തശ്ശി എങ്ങനെ ചിന്തിക്കുമെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല ഈ സോപ്പ് എടുക്കാൻ കാക്കയെ പ്രേരിപ്പിക്കാൻ സാധ്യതയുണ്ടോ അതിനാൽ ഈ രംഗത്തിന്റെ വളരെ ആത്മനിഷ്ഠമായ വിലയിരുത്തൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും അവളുടെ കാഴ്ച മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ കണക്കിലെടുക്കാത്ത ഒന്നാണ് അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് കാക്കയുടെ യുക്തിയെ അമ്മു കാര്യമാക്കുന്നില്ല പക്ഷേ അവൾക്കെല്ലാം താൽപ്പര്യമുണ്ട് സോപ്പ് ആകർഷകമല്ലാത്തത് കൊണ്ടും അത് ഉപയോഗിച്ചത് കൊണ്ടും അത് ഒരു ജീവിയെ ആകര്ഷിക്കില്ല എന്ന അനുഭവമുണ്ട് ഇപ്പോൾ ആ കഥാംശത്തിൽശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സോപ്പിനെ താരതമ്യം ചെയ്യുന്നു ഉപയോഗിച്ച സോപ്പ് കഷണം ഒരു ടൈലിന്റെ ഒരു ഭാഗവുമായി താരതമ്യം ചെയ്യുന്നു എന്നതാണ് അവൾ പറയുന്നു ഇത് ഒരു സമ്പൂർണ്ണ ടൈൽ ഒരു ശകലം ഒരു ചെറിയ ടൈൽ പോലെയല്ല ഇത് ഫ്ലോറിംഗിനായി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ മേൽക്കൂരകളിൽ ഉപയോഗിക്കുന്നു അതിനാൽ അത് തകർന്നു വീണ്ടും അത് പൂർണ്ണമല്ല അത് പ്രാകൃതമല്ല ഉപയോഗിച്ചു പൊട്ടിപ്പോയി എന്ന ആശയം അതിനാൽ അവിടെയുള്ള താരതമ്യം പോലും ഉപയോഗിച്ച എന്തെങ്കിലും അമ്മുവിന്റെ ധാരണയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ ശക്തിപ്പെടുത്തുന്നു അതിനാൽ ഇത് അപൂർണ്ണമാണ് അത് നീക്കം ചെയ്തു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് സാധാരണമാണ് അതിനാൽ അത് അമ്മുവിനെ ആകർഷിക്കുന്നത് കുറയ്ക്കുന്നു അവൾ ഒരുപക്ഷേ കാക്കയോട് തന്നെയായിരിക്കും ചിന്തിക്കുന്നത് ഒരു കാക്ക മോഷ്ടിക്കുമെന്ന അവളുടെ മുത്തശ്ശിയുടെ തോന്നല് തെറ്റാണെന്ന് അവൾ കരുതുന്നു ഇപ്പോൾ നാണി അമ്മയുടെ കളവിന് ന്യായം വിധിക്കുമ്പോൾ അമ്മുവിന്റെ ഈ സംഭവത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ ഈ കഥയിലെ മറ്റൊരു രംഗത്തിലേക്ക് നമുക്ക് പകർത്താം ആ പ്രത്യേക സംഭവത്തെക്കുറിച്ച് അമ്മുവിന് ഒരു ധാരണ മാത്രമേയുള്ളൂ നാണി അമ്മ മുത്തശ്ശിയുടെ വീട്ടിൽ നടത്തുന്ന മോഷണത്തിന് അവൾക്ക് ഒരു പ്രത്യേക മാനമുണ്ട് എന്നിരുന്നാലും അമ്മു ഈ സ്ത്രീകളെ ഒരു മൂലയിലേക്ക് തള്ളിവിടുകയും പരുഷമായ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഈ രംഗം ഓർക്കുന്നുവെങ്കിൽ നിങ്ങൾ നാണി അമ്മയെ ബന്ധപ്പെടുകയും നിങ്ങൾ ഒരു ചെറിയ കള്ളനാണെന്ന് പറയുകയും ചെയ്യുന്നു നിങ്ങൾ ഈ വീട്ടിലേക്ക് മടങ്ങരുത് എന്ന രീതിയിൽ പറയുന്നുണ്ട് നിര്ബന്ധിക്കുമ്പോൾ നാണി അമ്മ ആ വീട്ടിൽ ചെയ്യുന്ന കളവിന് മറ്റൊരു മാനം വാഗ്ദാനം ചെയ്യുന്നു ആ മറ്റൊരു മാനം ലോകത്ത് ധനികർ ഉണ്ട് ദരിദ്രർ ഉണ്ട് അമ്മു തിരിച്ചറിയാത്തതായി തോന്നുന്നു ഈ രണ്ട് വിഭാഗങ്ങൾക്കൊപ്പം ധ്രുവ വിഭാഗങ്ങൾ സമൂഹത്തിൽ കളിക്കുമ്പോൾ കുറ്റകൃത്യം തന്നെ സങ്കീർണമാകുന്നു അത് ബഹുമുഖമാണ് സമൂഹത്തിലെ അത്തരം അസമത്വങ്ങളെ പറ്റി ആ രംഗത് സൂചനയുണ്ടെന്ന് തോന്നുന്നു അതിനാൽ നമുക്ക് ആ കഥാംശത്തിലേക്ക് വീണ്ടും പോകാം ഞാൻ ഇവിടെ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ഒരു കഥാംശത്തിൽ ചെയ്യുന്ന ഈ ക്ലോസ് റീഡിങിൽ നിന്ന് ചില ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ് കൂടാതെ ഈ പ്രത്യേക ഭാഗത്തിലൂടെ ഞാൻ മറ്റ് സംഭവങ്ങളുമായും മറ്റ് സ്വഭാവങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു ഒരാൾ വായിക്കുന്ന വാചകവുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്തിന് എങ്ങനെ ആഗോള പ്രാധാന്യമുണ്ടെന്ന് അത് നിങ്ങളോട് പറയും ആ കഥാംശത്തിൽ അമ്മു ചോദിക്കുന്നു മുത്തശ്ശി എന്താണ് ഭംഗിയെന്നത് കാക്കയ്ക്ക് അറിയാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ തീർച്ചയായും എന്തെങ്കിലും സംശയമുണ്ടോ കാക്കയ്ക്ക് സൌന്ദര്യത്തിന് നല്ല കണ്ണുണ്ട് അല്ലാത്തപക്ഷം എന്തുകൊണ്ടാണ് ഇത് ചെറിയ എണ്ണ പാത്രങ്ങൾ കൊണ്ടുപോകുന്നത് അമ്മു പക്ഷികൾ വളരെ ബുദ്ധിമാനാണ് അവർക്ക് മനുഷ്യരേക്കാൾ സാമാന്യബുദ്ധിയും അറിവും ഉണ്ട് " അതിനാൽ തന്റെ അഭിപ്രായം മാത്രമല്ല ആ അഭിപ്രായത്തിനുള്ള തെളിവുകളും ഇവിടെ മുത്തശ്ശി നൽകുന്നു ഇവിടെ അടച്ച വായനാ ഉദാഹരണങ്ങൾ നമുക്ക് കാണുന്നു അതിനാൽ ഇത് സംസാരിക്കപ്പെടുന്നു കാരണം ഈ വീട്ടിൽ താമസിക്കുമ്പോൾ മുത്തശ്സി തന്റെ അഭിപ്രായം അനുഭവത്തിലൂടെ ശേഖരിച്ചുവെന്ന പ്രത്യേക തെളിവുകളോടെ ന്യായീകരിക്കപ്പെടുന്നു അതുകൊണ്ട് മുത്തശ്ശി എന്താണ് ഭംഗിയെന്നത് കാക്കയ്ക്ക് അറിയാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ആ ചോദ്യം തന്നെ വളരെ രസകരമാണ് കാരണം രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അമ്മൂ അമ്മൂമ്മയുടെ വിധിയെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുന്നില്ലെന്ന് നമുക്ക് കാണിച്ചുതരുന്നു ആ ചോദ്യത്തിൽ അപകർഷതാബോധം ഉണ്ട് ഇത് വളരെ രസകരമായ ഒരു ചോദ്യമാണ് അത് മറ്റുള്ളവരുടെ അറിവിന്റെ ഗുണനിലവാരത്തെയും ചോദ്യം ചെയ്യുന്നു മറ്റുള്ളവർ' ഇവിടെ കാക്കയാണ് അതിനാൽ കാക്കയ്ക്ക് സമൂഹത്തിലെ മറ്റുള്ളവർ ആകാൻ കഴിയും വേണ്ടി നിലകൊള്ളാൻ കഴിയും സ്വയം അല്ലാത്ത പ്രഭാഷകനല്ലാത്ത ആർക്കും അതിനാൽ അമ്മു മുത്തശ്ശിയുടെ ധാരണയെ മാത്രമല്ല ചുറ്റുമുള്ള സമൂഹത്തിലെ മറ്റ് ജീവികളുടെ ധാരണയെയും ചോദ്യം ചെയ്യുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മുത്തശ്ശി അവളുടെ അഭിപ്രായം മാത്രമല്ല അവളുടെ അഭിപ്രായങ്ങൾ അവകാശവാദങ്ങൾ അവളുടെ അവകാശവാദങ്ങൾ എന്നിവയ്ക്ക് അവൾ കഠിനമായ തെളിവുകൾ നൽകുന്നു ആ വലിയ വീട്ടിലെ ലോകാനുഭവത്തിലൂടെ അവൾ നിർമ്മിച്ച ഒന്നാണെന്ന് അവൾക്കറിയാമോ അവൾ കാക്കകൾ മോഷ്ടിച്ച ചെറിയ എണ്ണ പാത്രങ്ങളുടെ ഉദാഹരണം നൽകുന്നു ഈ പാത്രങ്ങൾ മനുഷ്യർക്ക് വളരെ ആകർഷകമാകണമെന്നില്ല എന്നാൽ അവയെ മോഷ്ടിക്കുന്ന ഈ കാക്കകൾക്ക് അവ വളരെ ആകർഷകമാകാം കാക്കകൾക്ക് സൌന്ദര്യത്തിൽ അതീവ ശ്രദ്ധയുണ്ടെന്നും മുത്തശ്ശി പറയുന്നത് വളരെ രസകരമാണ് അതായത് അവർക്ക് മൂർച്ചയുള്ള സൌന്ദര്യാത്മക വിലമതിപ്പുണ്ട് കീൻ എന്ന പദം കൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് കീൻ എന്ന വാക്കിന്റെ അർത്ഥം മഹത്തായ ധാരണ അല്ലെങ്കിൽ വളരെ പുരോഗമിച്ച കാഴ്ചപ്പാടുള്ള ഒന്ന് എന്നാണ് സാധാരണയായി മനുഷ്യർക്കായി ഉപയോഗിക്കുന്ന ഈ ഗുണങ്ങൾ ഒരു കാക്കയുടെ പശ്ചാത്തലത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അത് വളരെ രസകരമാണ് കാരണം മുത്തശ്ശി ഈ പോസിറ്റീവ് ഗുണങ്ങൾ മനുഷ്യനല്ലാത്ത ഒരു ജീവിക്ക് ഉപയോഗിക്കുന്നു സൌന്ദര്യം കാണുന്നവന്റെ കണ്ണിലാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം അതാണ് പൊതുവായ ധാരണ മിക്കവാറും ഒരു ക്ലീഷേ ധാരണ 7 അതിനാൽ നമുക്ക് സാധാരണമായത് മറ്റുള്ളവർക്ക് അസാധാരണമായിരിക്കാം ചിലർക്ക് വൃത്തികെട്ടത് മറ്റ് ചില ആളുകൾക്ക് മനോഹരമായി തോന്നിയേക്കാം അതിനാൽ സൌന്ദര്യം വസ്തുനിഷ്ഠമല്ല ആത്മനിഷ്ഠമാണ് അതിനാൽ സൌന്ദര്യത്തെക്കുറിച്ചുള്ള ഈ വിലയിരുത്തലിൽ നിന്ന് നമുക്ക് ചില ബന്ധങ്ങൾ ഉണ്ടാക്കാം ഈ സോപ്പ് പെട്ടിയിലൂടെ വികസിപ്പിച്ചെടുത്ത സൌന്ദര്യം എന്ന ആശയം കഥയിലെ മറ്റേതെങ്കിലും ഘട്ടത്തിൽ അമ്മു മറ്റൊരു വസ്തുവിനെക്കുറിച്ച് പരാമർശിക്കുകയും ആ വസ്തു വളരെ ആകർഷകമാണ് എന്ന് പറയുകയും ചെയ്യുന്നു ആകർഷകമായ ഈ രംഗം നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നാണി അമ്മ തല കുനിച്ചു ജോലി ആവശ്യപ്പെട്ട് പതിവായി വീട്ടിൽ വരുന്നതിന് മുത്തശ്ശി അവളെ ശാസിക്കുന്നതിനാലാണ് അവൾ അത് ചെയ്യുന്നത് മുത്തശ്ശിക്ക് അതത്ര സന്തോഷമില്ല അതിനാൽ "നാണി അമ്മ തല കുനിച്ചു അവൾ മകളുടെ മുടിയിൽ തലോടി പുഞ്ചിരിച്ചു ഇത് ഇവിടെ വളരെ സൌമ്യമായ പ്രവർത്തനമാണ് അവിടെ വളരെ വൈകാരികമായ ഒരു ആംഗ്യമാണ് അവൾ 'പുഞ്ചിരിച്ചു ' വീണ്ടും വളരെ രസകരമായ ഒരു ആംഗ്യം ഞാൻ ഒരു മിനിറ്റിനുള്ളിൽ അൺപാക്ക് ചെയ്യാൻ വരും ഞാൻ ആകർഷിക്കപ്പെട്ടു ഞാൻ ഇവിടെ അമ്മുവാണ് നാനി അമ്മയുടെ വലതു കൈയിൽ അവളുടെ വലതു കൈയിൽ ഇരുമ്പു മോതിരം ധരിച്ചിരുന്നത് അമ്മുവിനെ ആകർഷിച്ചു അതിനാൽ നാണി അമ്മ ഒരു ഇരുമ്പ് മോതിരം ധരിക്കുന്നു സങ്കീർണ്ണമായ ജോലി ഉള്ള മോതിരം രസകരമായ വാചകം അവൾ ഒരു മുഷിഞ്ഞ മുണ്ടും കീറിയ ബ്ലൌസും ധരിച്ചിരുന്നു എന്നിട്ടും ഞാൻ വിചാരിച്ചു അത്തരമൊരു അസാധാരണ മോതിരം ധരിക്കുന്നത് അവൾ ഭാഗ്യവതിയാണെന്ന് " അത്തരമൊരു അസാധാരണ മോതിരം ധരിക്കാൻ അവൾ ഭാഗ്യവതിയാണെന്ന വളരെ രസകരമായ അവസാന ആശയം അതിനാൽ ഈ സങ്കീർണ്ണമായ ഇരുമ്പ് മോതിരം ചുവന്ന സോപ്പ് കഷണം കാക്കയുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നതുപോലെ അല്ലെങ്കിൽ ഒരു എണ്ണപാത്രം കാക്കയുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയതുപോലെ അമ്മുവിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു ഈ സങ്കീർണ്ണമായ ഇരുമ്പ് മോതിരം അമ്മുവിനെ വളരെയധികം ആകർഷിക്കുന്നു നാണി അമ്മ ഈ മോതിരം ധരിക്കാൻ ശരിക്കും ഭാഗ്യവതിയാണെന്ന് അവൾ കരുതുന്നു ഈ മോതിരത്തിന്റെ ഉടമയാകാൻ ഭാഗ്യമുണ്ടായിരിക്കാം ഒരുപക്ഷേ അവിടെ അമ്മുവിന്റെ ചിന്തകളിൾ അസൂയയുടെ ഒരു ചെറിയ രൂപം പോലും നമുക്ക് കണ്ടെത്താനാകും അതിനാൽ ഇന്ററികെട് എന്ന വാക്ക് വളരെ രസകരമാണ് കാരണം ഇത് സങ്കീർണ്ണതയെ സൂചിപ്പിക്കുന്നു കൂടാതെ കലാവസ്തുക്കളിലെ സങ്കീർണ്ണത സൂചിപ്പിക്കുന്നത് അവ ഉയർന്ന തരത്തിലുള്ള കലാപരമായ വസ്തുക്കളായിരിക്കാം നമ്മുടെ സമൂഹത്തിൽ പൊതുവെ സങ്കീർണ്ണമായ കലാപരമായ കാര്യങ്ങൾക്ക് ഉയർന്ന മൂല്യമുണ്ട് അതിനാൽ ഈ കലാസൃഷ്ടിയെക്കുറിച്ച് നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഉന്നത കലയെ നാണി അമ്മയോ അമ്മുവോ അഭിനന്ദിക്കുന്നുവെന്ന് നമ്മൾ കാണണോ ടെക്സ്റ്റ് ചൂണ്ടിക്കാണിക്കുന്നതുപോലെ ഇത് അസാധാരണമായ ഒരു മോതിരം ആണ് ഇത് അസാധാരണമായ ഒരു മോതിരം ആണ് ഇത് ഒരു വിചിത്രമായ മോതിരം ആണ് അവൾ അസാധാരണവും അസാധാരണവും ഉയർന്നതുമായ എന്തെങ്കിലും ധരിച്ചിരിക്കുന്നതിനാൽ ആ വസ്തു ഉടമസ്ഥനെ ഭാഗ്യമായി കണക്കാക്കേണ്ടതുണ്ടോ നമ്മുടെ മനസ്സിൽ വരുന്ന ചില ചോദ്യങ്ങൾ ഇവയാണ് വീണ്ടും നമ്മൾ കാണണോ അതോ ഈ ചോദ്യം ചോദിക്കണോ ജോലിക്ക് യാചിക്കാൻ വരുന്ന പാവം സ്ത്രീയായ നാണി അമ്മയ്ക്ക് ഇത്രയും ഉയർന്ന കലാരൂപം ലഭിക്കാൻ ഭാഗ്യമുണ്ടോ അവൾ ഭാഗ്യവതിയാണോ അവൾ ദരിദ്രയായിരിക്കാം പക്ഷേ അവൾ ഭാഗ്യവതിയാണ് കാരണം അവൾ അത്തരം ഉയർന്ന കലാപരമായ വസ്തുക്കളുടെ ഉടമയാണ് വീണ്ടും ഉയരുന്ന മറ്റൊരു ചോദ്യം ഉയർന്ന കലയെ മനസ്സിലാക്കാൻ നാണി അമ്മയ്ക്ക് കഴിയുമോ ഈ ചോദ്യം ഞാൻ ഇവിടെ ചോദിക്കുന്ന ഒരുപാട് മാനങ്ങൾ ഉള്ള ചോദ്യമാണ് നഗരം അമ്മുവിനെ വളർത്തിയതുപോലെ ഒരുപക്ഷേ അവൾ ഈ മനോഹരമായ കാര്യത്തെ അഭിനന്ദിക്കുകയും ചെയ്യും ഇപ്പോൾ നമ്മൾ ഈ സങ്കീർണ്ണമായ മോതിരത്തിൽ ശ്രദ്ധിച്ചതിനുശേഷം നാണി അമ്മയുടെ കഥാപാത്രം അൽപ്പം സങ്കീർണമാകുന്നു അതിനാൽ അവളുടെ സ്വഭാവത്തെക്കുറിച്ച് ഒരു വിലയിരുത്തൽ നടത്താൻ നമ്മൾക്ക് ഇവിടെ നിരവധി കാര്യങ്ങൾ ഉണ്ട് മുത്തശ്ശി അവളെ അപലപിക്കുമ്പോൾ അവൾ പുഞ്ചിരിക്കുന്നു അത് ഏത് തരത്തിലുള്ള പ്രതികരണമാണ് അതും അസാധാരണമായ ഒരു പ്രതികരണമാണ് ഒരുപക്ഷേ ഇത് അവൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരു തത്ത്വചിന്താപരമായ അംഗീകാരമായിരിക്കാം അല്ലെങ്കിൽ അത് അതിജീവനത്തിന്റെ ഒരു തന്ത്രമാണോ നിങ്ങൾക്കറിയാം ഉന്നതർ നിങ്ങളെ നിരന്തരം സ്നാപ്പ് ചെയ്യും ആക്രോശിക്കും നിങ്ങളിൽ തെറ്റ് കണ്ടെത്തും നിങ്ങൾ അത് സ്വീകരിച്ച് ഒത്തുചേരുക അല്ലാത്തപക്ഷം ഈ ലോകത്ത് നിങ്ങൾ എങ്ങനെ കൃത്യമായി ജോലി കണ്ടെത്താൻ പോകുന്നു പ്രത്യേകിച്ചും നിങ്ങൾ ദരിദ്രനാണെങ്കിൽ അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ ചില വിശദാംശങ്ങൾ ശ്രദ്ധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുമ്പോൾ സ്വഭാവം സങ്കീർണ്ണമാകും ഞാൻ പറഞ്ഞതുപോലെ അവൾ ഒരു മുഷിഞ്ഞ മുണ്ടും കീറിപ്പറിഞ്ഞ ബ്ലൌസും സങ്കീർണ്ണമായ മോതിരവും നഗരം വളർത്തിയ പെൺകുട്ടിയെ ആകർഷിക്കുന്ന ഒരു മോതിരത്തിന്റെ ഉടമയാണ് എന്നിട്ടും അവൾ വളരെ ദാരിദ്ര്യത്തിലാണ് എനിക്ക് പറയാൻ കഴിയുന്നതുപോലെ ഈ ചോദ്യം ചോദിക്കുക ഒരു ദാരിദ്ര്യം ബാധിച്ച സ്ത്രീകൾക്ക് ഉയർന്ന കലയെ അഭിനന്ദിക്കാൻ കഴിയുമോ അതിനാൽ ഞാൻ മുമ്പ് ചോദിക്കുന്ന ഈ ചോദ്യം മോതിരത്തിന്റെ സൌന്ദര്യാത്മക യോഗ്യത അവൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടോ ഈ ചോദ്യം കാക്കയെക്കുറിച്ച് അമ്മു ചോദിച്ച മറ്റേ ചോദ്യവുമായി താരതമ്യപ്പെടുത്താവുന്നതാണ് എന്താണ് സുന്ദരമെന്ന് കാക്കയ്ക്ക് അറിയാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അതിനാൽ ഈ രണ്ട് ചോദ്യങ്ങൾക്കും അതിന്റെ അർത്ഥത്തിൽ സമാനതകൾ ഉണ്ട് അതിനാൽ ഈ രണ്ട് ചോദ്യങ്ങളും ഒരേ കാര്യം ചെയ്യുന്നു നമ്മൾ അവരോട് ചോദിച്ചാൽ അവ മറ്റൊന്നിനെ കുറച്ചുകാണുന്നു അവ മറ്റൊന്നിന്റെ ചിന്തയുടെ ഗുണനിലവാരം വാഗ്ദാനം ചെയ്യുന്നില്ല അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മൾ ഒഴിവാക്കണം കാരണം ആളുകൾക്ക് പല തരത്തിലുള്ള അറിവുകൾ കഴിവുകളുണ്ട് അവ അസമമായ അറിവുകളാൽ നിർമ്മിതമാണ് നാണി അമ്മയുടെ അസമമായ അറിവിന്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് തരാം ഉദാഹരണത്തിന് അവൾ മുത്തശ്ശിയുമായി വലിയ വീട് സന്ദർശിക്കുമ്പോൾ അവർ അവളുടെ ഇളയ മകളുമായി വലിയ വീട് സന്ദർശിക്കുകയും നിങ്ങളുടെ മകൾക്ക് എത്ര വയസ്സുണ്ടെന്ന് മുത്തശ്സി ചോദിക്കുകയും ചെയ്യുന്നു നാണി അമ്മ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ് ആ ജനകീയ കൊടുങ്കാറ്റ് നമ്മളുടെ ഗ്രാമത്തിൽ ആഞ്ഞടിച്ചപ്പോഴാണ് അവൾ ജനിച്ചത് എല്ലാവരും കിടക്കകളും പാചകം ചെയ്യുന്ന പാത്രങ്ങളും എടുത്ത് വീടുകൾ ഉപേക്ഷിക്കാൻ തിടുക്കം കാട്ടി ഞാൻ കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ ഞാൻ മാത്രം അവശേഷിച്ചു " അതിനാൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അവൾ ഒരു പ്രത്യേക നമ്പർ നൽകുന്നില്ല എന്നത് വളരെ രസകരമാണ് വളരെ ഹ്രസ്വമായ ഉത്തരം ആ ചോദ്യത്തിന് നാണി അമ്മ ഇവിടെ ഒരു ചിത്രം വരയ്ക്കുന്നു ഒരു വലിയ കൊടുങ്കാറ്റ് ഉണ്ടായതും കാര്യങ്ങൾ തലകീഴായി മാറിയതുമായ ആ പ്രത്യേക രാത്രിയിലാണ് അവൾ ജനിച്ചത് എല്ലാവരും പോകാനുള്ള തിരക്കിലായിരുന്നു പക്ഷേ ഞാൻ ഗർഭാവസ്ഥയായതിനാൽ ഞാൻ എവിടെയാണോ അവിടെ കുടുങ്ങി ഗ്രാമത്തിൽ എനിക്ക് ചുറ്റുമുള്ള എല്ലാവരും മൊബൈൽ ചലിച്ചിരുന്നപ്പോൾ ചലനരഹിതമായ ഈ വാചകം ഞാൻ മാത്രം അവശേഷിച്ചു എന്ന വാചകം ഈ പാവപ്പെട്ട ഏകാന്ത സ്ത്രീകളും സമൂഹത്തിന്റെ മറ്റ് ഭാഗങ്ങളും തമ്മിൽ രസകരമായ ഒരു വ്യത്യാസം നൽകുന്നു അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ ഊന്നിപ്പറയുന്നത് ഏകാന്തത ഒറ്റപ്പെടൽ കഷ്ടപ്പാടുകൾ പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ യാത്രയിലെ ഒരു പ്രയാസകരമായ നിമിഷത്തിൽ ഇവിടെ എടുത്തുകാണിക്കുന്നു കൂടാതെ നമുക്ക് ഊഹിക്കാം കൂടുതൽ ചോദിക്കാം അവൾ ഒരൊറ്റ അമ്മയാണോ അവൾ ഒരു വിധവയാണോ അവൾക്ക് കുടുംബം പരിപാലിക്കാൻ ഭർത്താവോ കൂട്ടാളിയോ കുടുംബാംഗമോ ഇല്ലേ അതിനാൽ ഈ ചോദ്യങ്ങളെല്ലാം അവളുടെ കൊച്ചു പെൺകുട്ടിയുടെ ജനനത്തിന്റെ പശ്ചാത്തലത്തിൽ അവൾ പുറന്തള്ളുന്ന ഈ കുറച്ച് ആശയങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ടതാണ് അതിനാൽ ആ പ്രത്യേക ഭാഗത്തെക്കുറിച്ച് വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം മുത്തശ്ശിയെപ്പോലെ നാണി അമ്മയും പ്രകൃതിയുമായി പൊരുത്തപ്പെടുന്നു എന്നതാണ് അതിനാൽ ഞാൻ ഇപ്പോൾ വായിച്ച ആ പ്രത്യേക ഉദാഹരണം കാണിക്കുന്നത് മകളുടെ പ്രായത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിനുള്ള ഒരു സൂചനയായി അവൾ പ്രകൃതിദുരന്തം വാഗ്ദാനം ചെയ്യുന്നു എന്നാണ് അതിനാൽ ഗ്രാമത്തിലെ സ്വാഭാവിക സംഭവങ്ങൾക്കനുസൃതമായി അവൾ സമയം കണക്കാക്കുന്നു സമയത്തിനനുസരിച്ച് കൂടുതൽ ആധുനികമായ അക്കൌണ്ടിംഗ് രീതികളുണ്ടെങ്കിലും ഇന്ന് മിക്ക ആളുകളും പിന്തുടരുന്ന അല്ലെങ്കിൽ മിക്ക ആളുകളും അക്കാലത്ത് പോലും പിന്തുടർന്ന ഗ്രിഗോറിയൻ കലണ്ടർ അവൾ പിന്തുടരുന്നതായി തോന്നുന്നില്ല അതിനാൽ നാണി അമ്മയെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന ഈ വിവരങ്ങളുടെ തുണ്ട് കഥയുടെ ഒരു ഹ്രസ്വ വായന ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കാഴ്ചപ്പാട് മാറ്റുന്നു അതിനാൽ അടുത്ത വായന പ്രചോദനങ്ങൾ സാമൂഹിക പശ്ചാത്തലം പശ്ചാത്തലം സാങ്കൽപ്പിക ഭൂപ്രകൃതിയിൽ ചപ്പുചവറുള്ള ആളുകളുടെ വിവിധ സ്വഭാവ പ്രചോദനങ്ങൾ എന്നിവയിലേക്ക് ജാലകങ്ങൾ തുറക്കുന്നു ഇപ്പോൾ ഈ ക്ലോസ് റീഡിങ് പ്രക്രിയയിലൂടെ ഞാൻ നാണി അമ്മയും കാക്കയും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിച്ചു ഈ രണ്ട് കണക്കുകൾ മറ്റുള്ളവയാണ് ഞാൻ മറ്റുള്ളവരെ വിളിക്കും മുത്തശ്ശിയും അമ്മുവും അമ്മുവിന്റെ അച്ഛൻ വേലായുധ മേനോനും അടങ്ങുന്ന ഈ ഉന്നത സമൂഹത്തിന്റെ പുറത്തുള്ള ആളുകളെ ഞാൻ വിളിക്കും അപ്പോൾ ഈ ഉയർന്ന സമൂഹം എങ്ങനെയാണ് ഈ രണ്ട് പ്രതിനിധികളെ അപരന്റെ വിഭാഗമായി വിലയിരുത്തുന്നത് ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട് മുത്തശ്ശി നാണി അമ്മയെ പലപ്പോഴും വീട്ടിൽ വന്നതിന് അപലപിച്ചിട്ടുണ്ടെങ്കിലും നാണി അമ്മയ്ക്ക് സഹായം വാഗ്ദാനം ചെയ്യാൻ അവൾ മടിക്കുന്നില്ല അതിനാൽ കഥയുടെ അവസാനത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നാണി അമ്മയെ കണ്ടുമുട്ടുമ്പോൾ ഒരു പരിധിവരെ പരുഷമായിരുന്നിട്ടും വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള അരി അവൾ വാഗ്ദാനം ചെയ്യുന്നു ഇത് പരിഗണിക്കുമ്പോൾ നാണി അമ്മയുടെ മോഷണ മനോഭാവത്തെക്കുറിച്ച് മുത്തശ്ശിയ്ക്ക് അറിയാമോ എന്ന ഈ രസകരമായ ചോദ്യം നമ്മൾ ചോദിക്കണം നാണി അമ്മ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ചെയ്യുന്നത് ഇതാദ്യമാണോ അതോ മുത്തശ്ശി കണ്ണടയ്ക്കുന്ന ഒരു പതിവ് സംഭവമാണോ അതിനാൽ ഈ കഥകൾ ബാക്കി കഥയിൽ നിന്ന് നമ്മൾ ശേഖരിക്കുന്ന വിവരങ്ങളുടെ കൂട്ടത്തിൽ ചോദിക്കുന്നത് തികച്ചും യുക്തിസഹമാണ് പ്രത്യേകിച്ച് മുത്തശ്ശിയുടെ മനോഭാവവുമായി ബന്ധപ്പെട്ട് ഒരു പരുക്കൻ പുറംകാഴ്ചയുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഉള്ളിൽ ആഴത്തിൽ മറഞ്ഞിരിക്കുന്നു ചുറ്റുമുള്ളവർക്ക് വെളിപ്പെടുത്താതിരിക്കാൻ അവൾ ഒളിക്കാൻ ശ്രമിക്കുന്നു ഈ വീഡിയോ ക്ലാസ് കണ്ടതിന് നന്ദി അടുത്ത സെഷനിൽ ഞാൻ നിങ്ങളെ ബന്ധപ്പെടും